നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിലായി രണ്ട് വ്യത്യസ്ത മൈഗ്രേഷനുകളെ കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി അതിൻറെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് അമീബോയ്ഡ് മൈഗ്രേഷൻ എന്ന പ്രക്രിയ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിങ്ങളുടെ അറിവിൽ മീസെൻകൈമൽ അഥവാ എഡ്ഹെഷൻ ഡിപെൻഡന്റ് മൈഗ്രേഷനും ദുർബ്ബലമായ എഡ്ഹെഷനോ അല്ലെങ്കിൽ അശേഷം പോലും എഡ്ഹെഷൻ ആവശ്യമില്ലാത്ത അമീബോയ്ഡ് മൈഗ്രേഷനും നിലവിലുണ്ട് ഇക്കഴിഞ്ഞ ലെക്ച്ചറിന്റെ അന്തിമഭാഗത്തായി കലക്ടീവ് സെൽ മൈഗ്രേഷൻ എന്ന മറ്റൊരിനം മൈഗ്രേഷനും ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി മേല്പറഞ്ഞ മീസെൻകൈമൽ അമീബോയ്ഡ് എന്നീ രണ്ട് മൈഗ്രേഷനുകളും പ്രധാനമായും സിംഗിൾ സെൽ മൈഗ്രേഷനുകളാണ് അതായത് രണ്ട് വ്യത്യസ്തതരം സിംഗിൾ സെൽ മൈഗ്രേഷനുകൾ ഉണ്ടെന്ന് സാരം അതുപോലെ തന്നെ കലക്ടീവ് സെൽ മൈഗ്രേഷനിലും അമീബോയ്ഡൽ മീസെൻകൈമൽ എന്നിങ്ങനെ രണ്ട് ഇനങ്ങൾ കാണാവുന്നതാണ് കലക്ടീവ് സെൽ മൈഗ്രേഷന്റെ ഭാഗമായി ഒന്നിലധികം കോശങ്ങളുടെ സമൂഹം ഒരുമിച്ച് നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മേല്പറഞ്ഞ സാഹചര്യത്തിൽ കോശങ്ങൾ തമ്മിലുള്ള എഡ്ഹെഷനുകൾ സുദൃഢമായിരിക്കും എന്നാൽ ചില വേറിട്ട സന്ദർഭങ്ങളിൽ വിവിധതരം കോശങ്ങൾ പരസ്പരബന്ധിതമല്ലാതെ സംയുക്തമായി ഒരു നിശ്ചിത ദിശയിൽ വ്യതിചലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മേല്പറഞ്ഞ സാഹചര്യത്തിൽ കോശങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള എഡ്ഹെഷനുകളും നമുക്ക് ദൃശ്യമാകുന്നില്ല എന്നിരുന്നാലും വ്യക്തമായ ദിശാസൂചനകളോടെ അവയ്ക്ക് നിയതമായ ദിശയിൽ സഞ്ചാരം സാധ്യമാണുതാനും കോശങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ചില ലയനസൂചകങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് ഹേതുവായി പ്രവർത്തിക്കുന്നത് മാക്രോ സ്കെയിലിൽ ഒരു കൂട്ടം മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ പക്ഷികളെയോ നാം നിരീക്ഷിക്കുകയാണെങ്കിൽ അവയിൽ ഒന്നിലധികം എന്റിറ്റികൾ പരസ്പരം കൂട്ടിമുട്ടാതെ തന്നെ ഒരേ ദിശയിൽ ഒരുമിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മേല്പറഞ്ഞ രീതിയിൽ ചലിക്കുമ്പോൾ നിശ്ചിത അകലം പാലിക്കുവാൻ അവയ്ക്കിടയിൽ നിയതമായ സിഗ്നലിങ് സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നതാണ് വസ്തുത കോശങ്ങൾ തമ്മിൽ സുദൃഢമായ എഡ്ഹെഷനുകൾ നിലനിൽക്കുന്ന കലക്ടീവ് സെൽ മൈഗ്രേഷൻ എന്ന സഞ്ചാര വൈഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ലെക്ച്ചറിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് കോശങ്ങൾക്കിടയിലെ സുദൃഢമായ എഡ്ഹെഷനുകൾ ഉപയോഗപ്പെടുത്തി മൈഗ്രേറ്റ് ചെയ്യുന്ന എപ്പിത്തീലിയൽ അല്ലെങ്കിൽ എൻഡോത്തീലിയൽ കോശങ്ങളിലാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൂണ്ട് ഹീലിങ് അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങൾ കൂട്ടമായി അതിക്രമിച്ച് കയറുന്ന പതോളജിക്കൽ പ്രക്രിയകളിൽ കലക്ടീവ് സെൽ മൈഗ്രേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് മേല്പറഞ്ഞതിൽ നമുക്ക് വൂണ്ട് ഹീലിങ് എന്ന മുറിവുണക്കുന്ന പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വൂണ്ട് ഹീലിങ് എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഈ കാണുന്നത് ചർമ്മത്തിന്റെ ഒരു തുണ്ട് കഷ്ണമാണ് ഇതിൽ ധാരാളം കോശങ്ങൾ ദൃശ്യമാണ് ഇതിന് നടുവിലായി ഒരു മുറിവുണ്ടായി എന്ന് സങ്കൽപ്പിക്കുക അതിന്റെ പരിണിതഫലമായി മധ്യഭാഗത്തെ കോശങ്ങൾ നിർജ്ജീവമാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിൽ കാണുന്നത് പോലെ നടുവിലെ കോശങ്ങൾ ഇതുപോലെ മൃതമായി കിടക്കും ചർമ്മത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ക്രമേണ അവ ഉണങ്ങുന്നതായി നമുക്കറിയാം മുറിവുണ്ടായ ഭാഗത്തേക്ക് കോശങ്ങൾ പതിയെ ഉള്ളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വൂണ്ട് ഹീലിങിന് പ്രേരകമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യത്തിലേക്കാണ് നാം ഇപ്പോൾ ചെന്നെത്തുന്നത് ചില ഘടകങ്ങൾ കോശങ്ങളുടെ മൈഗ്രേഷന് നിദാനമാകുന്നതാണോ അതോ മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള ഇടം ലഭ്യമാണ് എന്ന സിഗ്നൽ മാത്രം പിന്തുടർന്നാണോ ഇവ മൈഗ്രേഷൻ കാഴ്ചവെക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെയധികം പ്രസക്തമാണ് രണ്ടാമത്തെ ചോദ്യമെന്തെന്നാൽ ഒരൊറ്റ വ്യക്തിഗത കോശത്തിന്റെ പ്രവർത്തനം മൂലമാണോ അതോ എപ്പിത്തീലിയം അല്ലെങ്കിൽ എൻഡോത്തീലിയം എന്നിവയുടെ ആസൂത്രിതമായ പ്രവർത്തനം കൊണ്ടാണോ മേല്പറഞ്ഞ മൈഗ്രേഷൻ സാധ്യമാകുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങൾ പൂരിപ്പിക്കാം എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത ഇനി നമുക്ക് ഈ കാണുന്ന പ്രശ്നത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്റെ കൈവശം ഒരു പാച്ച് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഈ കാണുന്ന ഇടമാണ് മുറിവ് ഉണ്ടാക്കാനായി ലഭ്യമായത് എന്ന് കരുതുക സാധാരണഗതിയിൽ ഒട്ടുമിക്ക പരീക്ഷണങ്ങളിലും ഗവേഷകർ സ്ക്രാച്ച് വൂണ്ട് എസ്സേയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ ഈ ഭാഗത്തായി ഏതാനും ചില കോശങ്ങളും മറുവശത്തായി മറ്റു ചില കോശങ്ങളുമുണ്ട് ഒരു പിപ്പറ്റ് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്യുന്നതിലൂടെ ഇവിടെ മുറിവിന്റെ ഒരു മാതൃക സൃഷ്ടിക്കപ്പെടുന്നു മേല്പറഞ്ഞ സന്ദർഭത്തിൽ ഒട്ടനേകം കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ട് ഇതിൽ തന്നെ നശിക്കുന്നതിലേറെയും അതിർത്തി വേർതിരിക്കുന്ന ബോർഡർ കോശങ്ങളാണ് അതിർത്തി വേർതിരിക്കുന്ന ഒട്ടനേകം ബോർഡർ കോശങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നുണ്ട് എന്താണ് ഈ ബോർഡർ കോശങ്ങൾ സ്ക്രാച്ച് ചെയ്ത ഭാഗത്തിന്റെ അരികുമായി ബന്ധപ്പെട്ട കിടക്കുന്ന തീർത്തും പ്രധാനപ്പെട്ട കോശങ്ങളാണിവ മേല്പറഞ്ഞ പ്രവർത്തനത്തിന്റെ പരിണിതഫലമായി അനേകം ബോർഡർ കോശങ്ങൾ നിർജ്ജീവമാകുന്നുണ്ട് മേൽ സൂചിപ്പിക്കപ്പെട്ട എസ്സേ ഗവേഷണത്തിന്റെ ഭാഗമായി പ്രചാരത്തിലുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അവയുടെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ എങ്ങനെയാണ് നാം വൂണ്ട് ഹീലിങ് എന്ന പ്രക്രിയ ട്രാക്കുചെയ്യുക സാധാരണഗതിയിൽ ഇതിനായി ഗവേഷകർ ഈ കാണുന്ന നീളത്തിനെ സമയത്തിന്റെ പ്രവർത്തനമായി കണക്കാക്കുകയാണ് പതിവ് ഇത് സമയത്തിനെ സൂചിപ്പിക്കുന്ന ആക്സിസാണ് ഇതാകട്ടെ നീളം അഥവാ മുഴുനീള വ്യാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത് പ്രസ്തുത സ്ലാഷ് ഏരിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സമയബന്ധിതമായി മുറിവ് ഉണങ്ങുന്നതിന്റെ തോതനുസരിച്ച് ഒടുവിൽ ഇത് പൂജ്യത്തിലേക്കടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ഇനി ഞാൻ ഈ കാണുന്ന പ്രബന്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് PNAS 2007 ൽ പ്രസിദ്ധീകരിച്ച മേല്പറഞ്ഞ പ്രബന്ധത്തിന്റെ ശീർഷകം തന്നെ വൂണ്ട് മാതൃകയോടുള്ള എപ്പിത്തീലിയൽ മോണോ ലെയറിന്റെ കലക്ടീവ് മൈഗ്രേഷൻ പ്രതികരണമെന്നതാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് ഒരു ഉപരിതലത്തിന്റെ ആവശ്യമുണ്ട് അതിനായി നമുക്ക് ഒരു ഗ്ലാസ് കവർസ്ലിപ്പിന്റെ പ്രതലമെടുക്കാം ശേഷം ഗവേഷകർ PDMS ഇലാസ്റ്റോമർ ഉപയോഗിച്ച് ഒരു സ്റ്റെൻസിൽ രൂപകൽപന ചെയ്യുകയുണ്ടായി ഈ കാണുന്ന കോശങ്ങളെ ഇവയ്ക്ക് മുകളിലായി പ്ലേറ്റ് അല്ലെങ്കിൽ സീഡ് ചെയ്യുകയാണ് അടുത്ത നടപടി ഇവിടെ നീലനിറത്തിൽ രേഖപ്പെടുത്തിയ മേഖലയിൽ കോശങ്ങൾക്ക് നിലയുറപ്പിക്കാൻ സാധിക്കുകയില്ല ആയതിനാൽ അവ ലഭ്യമായ ഇടങ്ങളിൽ പരമാവധി സമൃദ്ധമായി പെരുകുകയാണ് പതിവ് ഇപ്പോൾ നിങ്ങളുടെ കൈവശം കോശങ്ങളുടെ ഒരു പാച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ചുറ്റും കാണപ്പെടുന്ന മേഖലയിലേക്ക് കോശങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല പക്ഷെ അതിന് ചുറ്റിലുമായി സ്റ്റെൻസിൽ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപരിതലം മേല്പറഞ്ഞ സ്റ്റെൻസിൽ നീക്കം ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന പാച്ചുകളുടെ വശങ്ങളിലായി ഒട്ടനേകം ശൂന്യമായ ഇടങ്ങൾ നമുക്ക് ദൃശ്യമാകും സ്റ്റെൻസിൽ നീക്കം ചെയ്തപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ശൂന്യമായ ഇടങ്ങൾ ദീർഘ ചതുരാകൃതിയിലുള്ള പാച്ചിനെ വലയം ചെയ്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നും കോശങ്ങൾ പുറത്തേക്ക് വിവിധ ദിശകളിലായി മൈഗ്രേറ്റ് ചെയ്യുവാൻ തുടങ്ങും എന്നതാണ് വസ്തുത മുറിവിനുള്ളിലേക്ക് കോശങ്ങൾ പതിയെ മൈഗ്രേറ്റ് ചെയ്യുന്ന പ്രവണതയുള്ള വൂണ്ട് ഹീലിങ് എസ്സേയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ കോശങ്ങളുടെ മൈഗ്രേഷൻ പുറമേക്കാണ് എന്ന വ്യത്യാസമുണ്ട് എന്നാൽ കോശങ്ങളിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും അനുഭവപ്പെടുന്നില്ല എന്ന പ്രത്യേകതയും ഇവിടെ നിലവിലുണ്ട് ഒരു മൃതകോശം പോലും ഇവിടെ സൃഷ്ട്ടിക്കപ്പെടുന്നില്ല എന്നത് മേല്പറഞ്ഞ എസ്സേയുടെ ഒരു സുപ്രധാന സവിശേഷത തന്നെയാണ് നീളം അതേപടി നിലനിർത്തി മേല്പറഞ്ഞ മാതൃകയുടെ വീതിയിൽ വിവിധതരം വ്യത്യാസങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ പുറത്തേക്കുള്ള കോശങ്ങളുടെ ചലനത്തിനെ എപ്രകാരമാണ് മേൽസൂചിപ്പിച്ച വ്യതിയാനം സ്വാധീനിക്കുക എന്ന പ്രസക്തമായ ചോദ്യമാണ് ഗവേഷകർ ഇവിടെ ഉന്നയിക്കുന്നത് ഓരോ അരികിൽ നിന്നും അതിർത്തി കോശങ്ങൾ എത്ര ദൂരം ചലിച്ചു എന്നതിന്റെ ശരാശരി നിരക്ക് ട്രാക്കുചെയ്യുകയാണ് അവർ പ്രധാനമായും ചെയ്തത് മേല്പറഞ്ഞ അതിർത്തി കോശങ്ങളുടെ സ്ഥാനം സമയത്തിന്റെ പ്രവർത്തനമായാണ് കണക്കാക്കപ്പെടുന്നത് ഗവേഷകർ എന്താണ് ഇതിലൂടെ കണ്ടെത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം നിശ്ചിത സമയക്രമത്തിൽ കോശങ്ങൾ അല്പദൂരം ചലിച്ചെന്ന് അനുമാനിക്കുക ഇതിനെ ലോഗ് ലോഗ് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോപ്പിന്റെ തുക ഏകദേശം രണ്ടെന്ന് ലഭ്യമാകുന്ന ഒരു കണക്കാണ് അവർക്ക് ലഭ്യമായത് അതിനർത്ഥം ദൂരത്തിന്റെ നിരക്ക് at2 എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം അളന്ന് തിട്ടപ്പെടുത്താം എന്നതാണ് s നെ t2 ന് ആനുപാതികമായി രേഖപ്പെടുത്താമെന്ന് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി വീതി അഥവാ w വിന്റെ നിരക്ക് 150 മൈക്രോൺസിനെക്കാൾ അധികമായാൽ പിന്നീട് വീതിയുടെ നിരക്കിൽ എത്ര വ്യതിയാനം പ്രകടമായാലും അതിർത്തി കോശങ്ങളുടെ ചലനം പാരബോളിക് ശൈലിയിൽ സമയവുമായി ഒരു സ്കെയിലിങ് റിലേഷനിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത എന്നാൽ w വിന്റെ നിരക്ക് 150 മൈക്രോണിലും താഴുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ s നെ t2 ന് ആനുപാതികമായി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന n ന്റെ മൂല്യം 1 3 എന്ന് നമുക്ക് ലഭ്യമാകുന്നു താരതമ്യേന വീതി കുറവുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ എന്തുകൊണ്ടാണ് ഗവേഷകർക്ക് മേല്പറഞ്ഞ വ്യത്യാസം നിരീക്ഷിക്കാൻ കഴിയുന്നത് ഒരു സാധ്യതയെന്തെന്നാൽ കോശങ്ങളുടെ വലിയൊരു പാച്ച് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വശത്തുള്ള കോശങ്ങൾക്ക് മറുവശത്ത് കാണപ്പെടുന്ന കോശങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ സാധിക്കുകയില്ല എന്നതാണ് അക്ഷരാർത്ഥത്തിൽ മേല്പറഞ്ഞ രണ്ടരികിലുമുള്ള കോശങ്ങൾ സ്വതന്ത്രമായാണ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്ന് സാരം എന്നാൽ പാച്ചുകളുടെ വലുപ്പം ചുരുക്കികൊണ്ടുവന്നാൽ മധ്യഭാഗത്തായി കാണപ്പെടുന്ന കോശങ്ങൾക്ക് ഇടത് വശത്തേക്കാണോ അതോ വലത് ഭാഗത്തേക്കാണോ ചലിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവ്യക്തത പ്രകടമായിരിക്കും പ്രസ്തുത കാരണം മൂലമായിരിക്കാം ഒരു പക്ഷെ വീതി കുറഞ്ഞ പാച്ചുകളിൽ മൈഗ്രേഷൻ മന്ദഗതിയിൽ സംഭവിക്കുന്നത് ഇനി ഈ കാണുന്ന മാതൃകയുടെ ഒരു പ്രത്യേക വശത്തേക്ക് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് കരുതുക ഈ കാണുന്ന കോശങ്ങളെല്ലാം ഒരേ വരിയിൽ ചലിക്കുന്നതാണോ അതോ എപ്പിത്തീലിയൽ പാളിയിൽ ഇവയുടെ സജീവമായ പുനഃസ്ഥാപനം സംഭവിക്കുന്നതാണോ എന്ന ചോദ്യമാണ് അവർ അടുത്തയായി ഉന്നയിക്കുന്നത് വിശദപഠനങ്ങൾക്കായി പാർട്ടിക്കിൾ ഇമേജ് വെലോസിമെട്രി അഥവാ PIV എന്ന നൂതന സാങ്കേതിക വിദ്യയാണ് അവർ തിരഞ്ഞെടുത്തത് കോശങ്ങളുടെ ഫ്ലോ പാറ്റേണുകൾ ട്രാക്കുചെയ്യാനാകും എന്നതാണ് മേല്പറഞ്ഞ PIV സംവിധാനത്തിന്റെ പ്രത്യേകത എപ്പിത്തീലിയൽ പാളികളിൽ അന്തർലീനമായ ഒരു കോൺട്രാസ്റ് നിലനിൽക്കുന്നതിനാൽ അവ ഉപയോഗപ്പെടുത്തി കോശങ്ങളുടെ ഫ്ലോ പാറ്റേണുകൾ നമുക്ക് അനായാസേന നിരീക്ഷിക്കുവാൻ സാധിക്കും എന്നതാണ് വസ്തുത നാം സങ്കൽപ്പിക്കുന്നത് പോലെ അരിക് പറ്റിനിൽക്കുന്ന കോശങ്ങളുടെ സഞ്ചാരം യഥാർത്ഥത്തിൽ ഒരു നേർരേഖയിലല്ല പുരോഗമിക്കുന്നത് മറിച്ച് അവയിൽ ഇത്തരത്തിലുള്ള വിപുലീകരണങ്ങൾ പ്രകടമാകുകയാണ് ചെയ്യുന്നത് മേല്പറഞ്ഞ ഘടനാപരമായ വിന്യാസം അക്ഷരാർത്ഥത്തിൽ കൈവിരലുകളുടെ രൂപമാതൃകയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഫ്ലോ പാറ്റേണുകൾ നിരീക്ഷിക്കുന്ന സംവിധാനത്തിലൂടെ വീക്ഷിക്കുമ്പോൾ മേല്പറഞ്ഞ ഫിംഗറുകളെ ലക്ഷ്യമാക്കിയാണ് കോശങ്ങളുടെ പ്രവാഹം ദൃശ്യമാകുന്നത് ആയതിനാൽ ടിഷ്യുവിനുള്ളിലും വിവിധതരത്തിലുള്ള ഫ്ലോ പാറ്റേണുകൾ പ്രകടമാകുന്നുണ്ടാകും എന്ന് സാരം ഈ കാണപ്പെടുന്നതാണ് ലീഡിങ് എഡ്ജ് എങ്കിലും ഇതിൽ നിന്നും തീർത്തും അകലെ നിന്ന് പോലും നമുക്ക് ഫ്ലോ പാറ്റേണുകൾ കണ്ടെത്താനാകും എന്നതാണ് വസ്തുത ഫിംഗറുകളിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക കോശങ്ങളും എപ്പിത്തീലിയൽ പാളിയുടെ ഉൾഭാഗത്ത് നിന്നും കടത്തികൊണ്ടുവന്നവയാണ് ആയതിനാൽ മേല്പറഞ്ഞ പ്രവാഹത്തിലൂടെ കോശങ്ങൾ പാളിയുടെ മധ്യഭാഗത്ത് നിന്നും വശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഫിംഗറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനങ്ങളിലേക്കോ മൈഗ്രേറ്റ് ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ഫിംഗറുകളിലേക്ക് സസൂക്ഷ്മം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ എപ്പിത്തീലിയൽ പാളിയുടെ ക്രമാനുഗതമായ വികാസത്തിന് വിരുദ്ധമായി എന്തുകൊണ്ട് പ്രാദേശികമായ ഇത്തരം പ്രൊട്രുഷനുകൾ രൂപപ്പെടുന്നു എന്ന ചോദ്യം തീർത്തും പ്രസക്തമാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിനായി നമുക്ക് ഈ കാണുന്ന ഫിംഗറിന്റെ ഘടനയിൽ ഒന്ന് ശ്രദ്ധ ചെലുത്താം ഇവയുടെ ഘടനയിൽ ഒന്നിലധികം കോശങ്ങൾ നമുക്ക് ദൃശ്യമാണ് ഫിംഗറിന്റെ വശങ്ങളിലായി കാണപ്പെടുന്ന ഏതാനും ചില കോശങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇതിന്റെ ഭാഗമായി ഞാൻ f ആക്റ്റിന്റെ ഒരു രേഖാചിത്രം വരയ്ക്കുകയാണ് വശങ്ങളിലായി കാണുന്ന ഈ വരകളിലാണ് കോശങ്ങൾ പരസ്പരം ബന്ധിച്ച് നിലകൊള്ളുന്നത് എന്നാൽ കോണുകളുടെ പരിധിയിൽ കാണപ്പെടുന്ന ആക്റ്റിന്റെ ഘടന വശങ്ങളിലായി കാണപ്പെടുന്നവയിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ കോശങ്ങൾ തമ്മിലുള്ള എഡ്ഹെഷനുകൾ സുദൃഢമാണ് മേല്പറഞ്ഞ കോണുകളുടെ പരിധിയിൽ ദൃശ്യമാകുന്ന കോശങ്ങളെ ലീഡർ കോശങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഇവയ്ക്ക് ഏറിയ പങ്കും മീസെൻകൈമൽ കോശങ്ങളുടെ ആകാരവടിവാണുള്ളത് ഇവിടെ പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്ന കോശങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ കാണുന്ന ഭാഗം അധിക എഡ്ഹെഷനുകൾ ഉപയോഗപ്പെടുത്തി സബ്സ്ട്രേറ്റുമായി സുദൃഢമായി നിലനിൽക്കുന്നവയാണ് മേല്പറഞ്ഞ സന്ദർഭത്തിൽ കോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സെൽ ടു സെൽ എഡ്ഹെഷനുകൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഈ കാണുന്ന പരിധിയിൽ ഫോക്കൽ എഡ്ഹെഷനുകൾക്കാണ് പ്രസക്തി മേല്പറഞ്ഞ ഫോക്കൽ എഡ്ഹെഷനുകൾ ലീഡിങ് കോശങ്ങളെ പുറത്തേക്ക് നയിക്കുവാൻ സഹായിക്കുമ്പോൾ പുറകിൽ കാണപ്പെടുന്ന മറ്റ് കോശങ്ങൾ ലീഡർ കോശങ്ങളെ പിന്തുടരുകയാണ് പതിവ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ലീഡർ കോശങ്ങളും ഫോളോവർ കോശങ്ങളും ഉണ്ടെന്ന് സാരം ലീഡർ കോശങ്ങൾ ലീഡിങ് എഡ്ജിലും ഫോളോവർ കോശങ്ങൾ അതിന് പുറകിലുമായി അണിനിരത്തപ്പെട്ടിരിക്കുന്നു പ്രാരംഭ ബോർഡറിൽ നിന്നല്ലാതെ രണ്ടാമത്തേയോ മൂന്നാമത്തെയോ പാളിയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ് മേല്പറഞ്ഞ ലീഡർ കോശങ്ങൾ എന്ന സൂചനയാണ് ഫ്ലോ പ്രൊഫൈൽ പ്രകാരം നമുക്ക് ലഭ്യമാകുന്നത് അവയുടെ സ്വഭാവരീതികളിലും പ്രകടമായ വൈജാത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമയത്തിന്റെ പ്രവർത്തനമായി ഇവയുടെ ഡിസ്പ്ലേസ്മെന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അവ ഫോളോവർ കോശങ്ങളിൽ നിന്നും വിഭിന്നമായി പെരുമാറുന്നതായി നമുക്ക് വ്യക്തമാകും എന്നതാണ് വസ്തുത ലീഡർ കോശങ്ങൾ ദ്രുതഗതിയിൽ മൈഗ്രേഷൻ കാഴ്ചവെക്കുന്നവരാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇവ എപ്പിത്തീലിയത്തിന്റെ അരികുവശങ്ങളിലൂടെ ലംബമായാണ് സഞ്ചരിക്കുന്നത് ഇതിൽ നിന്നും വിഭിന്നമായാണ് ഫോളോവർ കോശങ്ങളുടെ സഞ്ചാരപഥം ഈ കാണുന്നത് ഫോളോവർ കോശങ്ങളുടെ സ്ഥാനചലനമാണ് സമയത്തിന്റെ പ്രവർത്തനമായി ഗണിക്കുമ്പോൾ ഇവ താരതമ്യേന മന്ദഗതിയിലാണ് ചലിക്കുന്നത് ഈ കാണുന്ന ഫ്രീ എഡ്ജുകളിലാണ് മേല്പറഞ്ഞ ഫോളോവർ കോശങ്ങൾ ഭൂരിഭാഗവും നിലകൊള്ളുന്നത് ലീഡർ കോശങ്ങളെ സംബന്ധിച്ച മറ്റൊരു സുപ്രധാന കാര്യമെന്തെന്നാൽ അവ നിരന്തരം സുസ്ഥിരമായ വേഗതയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ കെല്പുള്ള കോശങ്ങളാണ് എന്നതാണ് ആയതിനാൽ അവയുടെ സഞ്ചാരപഥത്തിനെ സൂചിപ്പിക്കുന്ന ഈ വരയുടെ സ്ലോപ്പ് എപ്പോഴും കോൺസ്റ്റന്റായിരിക്കും എന്നതാണ് വസ്തുത മേല്പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് നൂതനമായ ഈ സാങ്കേതിക വിദ്യയുടെ അപൂർവ്വത തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു സവിശേഷത കാരണം മേല്പറഞ്ഞ സംവിധാനത്തിലൂടെ അതിസങ്കീർണ്ണമായ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ വളരെ രസകരമായി വൂണ്ട് ഹീലിങ് പഠനം സാധ്യമായി എന്നതാണ് പരീക്ഷണാർത്ഥം ആവശ്യമായ അതീവ ഗൌരവമേറിയ സജ്ജീകരണങ്ങളോ സ്ക്രാച്ച് സ്പൂൺ പോലെ സ്ക്രാച്ച് ചെയ്തെടുക്കാൻ സഹായകമാകുന്ന ഉപകരണങ്ങളോ ഒന്നും നാം ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല വ്യത്യസ്ത വ്യവസ്ഥിതികളിൽ മേല്പറഞ്ഞ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ തുല്യ ആകൃതിയിൽ എപ്പോഴും സ്ക്രാച്ച് സാധ്യമാകണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ വശങ്ങളിൽ അരികുപറ്റി കാണപ്പെടുന്ന നിരവധി കോശങ്ങൾ നിർജ്ജീവമായേക്കാം ഇവയെല്ലാം വൂണ്ട് ഹീലിങ് എന്ന പ്രക്രിയയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇവിടെ മൃതകോശങ്ങൾ ഒന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ ഒരൊറ്റ പാളി മാത്രമായി നിലകൊണ്ടിരുന്ന കോശങ്ങൾ വികാസം പ്രാപിക്കുകയും അതിന്റെ പരിണിതഫലമായി ലീഡർ ഫോളോവർ എന്നിങ്ങനെ വ്യത്യസ്തയിനം കോശങ്ങൾ നമുക്ക് ദൃശ്യമാകുകയും ചെയ്യുന്നു കലക്ടീവ് സെൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കൊഹ്യറൻറ് ആംഗുലാർ മോഷൻ അഥവാ CAM എന്ന മറ്റൊരു പ്രതിഭാസം കൂടി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരീക്ഷണങ്ങൾ മാഡിൻഡാർബി കനൈൻ കിഡ്നി എപ്പിത്തീലിയൽ സെൽസ് അഥവാ MDCK കോശങ്ങളിലാണ് ആദ്യമായി പഠനം നടത്തിയത് അവയെ ചുരുക്കി MDCK എപ്പിത്തീലിയൽ കോശങ്ങൾ എന്നും അഭിസംബോധന ചെയ്യാവുന്നതാണ് മേല്പറഞ്ഞ MDCK കോശങ്ങളെ വൃത്താകൃതിയിലുള്ള ഒരു പാറ്റേണിൽ നിരത്തുകയാണെന്ന് കരുതുക ഏതാണ്ട് 200 മൈക്രോൺ പരിധിയിലുള്ള ഒരു പാറ്റേണാണിത് മേല്പറഞ്ഞ പാറ്റേണിന് ചുറ്റുമായി ഫൈബ്രോനെക്റ്റിൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ECM ലിഗാൻഡ് കൊണ്ട് വലയം ചെയ്തിട്ടുണ്ട് എന്ന് സങ്കൽപ്പിക്കുക ആയതിനാൽ കോശങ്ങൾ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതെ ഇവയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കോശങ്ങളെ മേല്പറഞ്ഞ പാറ്റേണുകളിൽ നിരത്തുമ്പോൾ അവയുടെ കോൺസെൻട്രേഷൻ നിയന്ത്രിക്കുന്നതിലൂടെ അക്ഷരാർത്ഥത്തിൽ നാം കോശങ്ങളുടെ സാന്ദ്രതയിലാണ് പിടിമുറുക്കുന്നത് ഇത്തരം പാറ്റേണുകളിൽ കോശങ്ങളിൽ പ്രകടമാകുന്ന മൈഗ്രേഷന്റെ ശരാശരി സ്വഭാവസവിശേഷത എപ്രകാരമാണ് എന്ന ചോദ്യം നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാവുന്നതാണ് കോൺഫ്ലുവൻസി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോശങ്ങളെ നാം CAM എന്നാണ് വിശേഷിപ്പിക്കുന്നത് മേല്പറഞ്ഞ സാഹചര്യത്തിൽ അവ പാറ്റേണിനകത്ത് ടാൻജെൻഷ്യൽ ദിശയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകും മാത്രമല്ല കോശങ്ങൾ ഈ കാണുന്നത് പോലെ കൂട്ടത്തോടെ ഭ്രമണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു പാറ്റേണുകൾക്കുള്ളിലെ കോശങ്ങളുടെ സഞ്ചാരപഥത്തിന്റെ ദിശ രേഖപ്പെടുത്തുകയാണെങ്കിൽ കോൺഫ്ലുവൻസി പ്രകടമാകുന്നിടത്ത് ഇത്തരത്തിൽ പൂർണ്ണമായ തോതിലുള്ള ഭ്രമണം നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത 2000mm2 എന്ന നിരക്കിൽ സാന്ദ്രതയുള്ള കോശങ്ങൾ റൊട്ടേഷണൽ മോഷൻ കാഴ്ചവെക്കുന്നു ഇതിനെയാണ് നാം കൊവാലെന്റ് ആംഗുലാർ റൊട്ടേഷൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കോശങ്ങളുടെ സാന്ദ്രത പാറ്റേൺ അഥവാ കൺഫൈൻമെന്റിന്റെ വലുപ്പം എന്നിവയെല്ലാം മേല്പറഞ്ഞ റൊട്ടേഷനെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് ഈ കാണുന്ന ടിഷ്യുവിന്റെ വലുപ്പത്തിൽ വർദ്ധനവ് കൊണ്ടുവരാൻ സാധ്യമായാൽ മേല്പറഞ്ഞ റൊട്ടേഷൻ നമുക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കും എന്നതാണ് വസ്തുത പ്രസ്തുത ലെക്ച്ചർ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്ത ഏതാനും ചില വിഷയങ്ങൾ സംഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ സെൽ ടു സെൽ എഡ്ഹെഷനുകൾ തീർത്തും സുദൃഢമായ എപ്പിത്തീലിയൽ കോശങ്ങളിൽ കാണപ്പെടുന്ന കലക്ടീവ് സെൽ മൈഗ്രേഷനും സെൽ ടു സെൽ എഡ്ഹെഷനുകളുടെ സാന്നിധ്യമില്ലാതെ നിയതമായ ദിശയിൽ ഏകീകൃതമായി ചലിക്കുന്ന കോശങ്ങളിൽ ദൃശ്യമാകുന്ന മൈഗ്രേഷനുകളും ഉൾപ്പെടുന്നു കൂടാതെ ലീഡർ ഫോളോവർ എന്നീ കോശങ്ങളെ കുറിച്ചും അത് പോലെ തന്നെ കൊഹ്യറൻറ് ആംഗുലാർ റൊട്ടേഷനെ കുറിച്ചും നാം ഇന്ന് വിശദീകരിക്കുകയുണ്ടായി നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി